നമുക്ക് ബക്ക് കൺവെർട്ടറിന്റെ സിമുലേഷൻ ആരംഭിക്കാം gEDA സ്കീമാറ്റിക് സ്കീമാറ്റിക് ക്യാപ്ചർ യൂണിറ്റ് ആരംഭിക്കുന്ന ആപ്ലിക്കേഷനുകളിലേക്ക് നമുക്ക് നീങ്ങാം ആദ്യം ഇവിടെ പോകാം ഇത് ആദ്യം സേവ് ചെയ്യൂ ഞാൻ ഇത് DC DC യിൽ ഇടാം നമ്മൾ ഇതിനെ ബക്ക് എന്ന് വിളിക്കുന്നു അതിനാൽ നമുക്ക് ഇവിടെ ഡോട്ട് sch ഫയൽ ഉണ്ട് അതിനാൽ ഇപ്പോൾ നമ്മൾ ഘടകങ്ങൾ ലോഡുചെയ്യാൻ തുടങ്ങും മുമ്പത്തെപ്പോലെ ഞാൻ നമുക്ക് കപ്പാസിറ്റൻസ് ആവശ്യമായ ഘടകങ്ങളിലേക്ക് പോകും നമുക്ക് വോൾട്ടേജ് സോഴ്സ് ആവശ്യമാണ് സൈൻ തരംഗമല്ല ഇവ ഡിഫോൾട്ടാണ് നമ്മൾ അത് ഡിസി വോൾട്ടേജ് സോഴ്സിലേക്ക് മാറ്റും നമുക്ക് ഡയോഡ് ആവശ്യമാണ് ഒരു ഇൻഡക്റ്റർ ആവശ്യമാണ് ലോഡിന് റെസിസ്റ്റർ ആവശ്യമാണ് തുടർന്ന് നമുക്ക് ഒരു പവർ സ്വിച്ച് ആവശ്യമാണ് പവർ സ്വിച്ച് നിയന്ത്രിത സ്വിച്ച് ആവശ്യമാണ് അതിനാൽ ഇതൊരു സാധാരണ നിയന്ത്രിത സ്വിച്ച് ഒരു IGBT അല്ലെങ്കിൽ MOSFET അല്ലെങ്കിൽ ഒരു BJT ആകാം ഇപ്പോൾ ഡ്രൈവ് നിയന്ത്രിക്കാൻ സ്വിച്ചിനുള്ള ഡ്രൈവ് നൽകുന്നതിന് ഇവിടെ ഒരു ബ്ലോക്ക് എടുക്കേണ്ടതുണ്ട് ഒരു ബ്ലോക്ക് ലൈബ്രററിയിലേക്ക് പോകുക ഉള്ള നമ്മുടെ ഇഷ്ടാനുസൃത ലൈബ്രറി ഉൾപ്പെടുത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഇവ Vin ആയിരിക്കും

അതിനാൽ നമുക്ക് ഇൻപുട്ട് സോഴ്സ് ഉണ്ട് ഇതും ഒരു DC സോഴ്സാണ് ഞാൻ ഇപ്പോൾ ഇത് സീറോ പോയിന്റ് അഞ്ച് വോൾട്ട് ആയി പ്ലോട്ട് ചെയ്യുകയും ഇതിനെ Vc അല്ലെങ്കിൽ PWM ന് നിങ്ങൾ നൽകുന്ന കൺട്രോൾ വോൾട്ടേജ് എന്ന് വിളിക്കുകയും ചെയ്യും അതിനാൽ നമുക്ക് അതിനെ Vc എന്ന് വിളിക്കാം അത് PWM ന്റെ ഇൻപുട്ട് ഇവിടെ ചെയ്യണം നമുക്ക് ചിട്ടപ്പെടുത്താം ഇപ്പോൾ ബക്ക് കൺവെർട്ടറിനായി ഞാൻ അത് തിരിക്കാൻ ശ്രമിക്കും തുടർന്ന് അത് ഇവിടെ സ്ഥാപിക്കുക തുടർന്ന് നമുക്ക് ഒരു ഡയോഡ് കറക്കേണ്ടതുണ്ട് തുടർന്ന് ഡയോഡ് ഇവിടെ സ്ഥാപിക്കാം തുടർന്ന് നമുക്ക് ഒരു ഇൻഡക്ടർ അത് ലൈനിൽ സ്ഥാപിക്കേണ്ടതുണ്ട് അതിനാൽ അത് വഴി കണക്ഷൻ വയറുകൾ നിർമ്മിക്കുന്നത് എളുപ്പമാണ് പാത്ത് ഇവിടെ സ്ഥാപിക്കുന്നതിനായി നമുക്ക് ലോഡ് റെസിസ്റ്റൻസ് തിരിക്കാം പിന്നെ PWM ഇവിടെയും അതിനാൽ ഗ്രൌണ്ട് ചിഹ്നത്തിന്റെ കോപ്പി ഉണ്ടാക്കി പേസ്റ്റ് ചെയ്യാൻ കഴിയുന്ന സ്ഥാനങ്ങളാണിവ അതിനാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഗ്രൌണ്ട് ചിഹ്നം കൂടിയുണ്ട് ഇനി നമുക്ക് അടുത്ത ഘട്ടം കണക്ഷനുകൾ ഉണ്ടാക്കുക എന്നതാണ് അതിനാൽ ഇത് ഇവിടെ ബന്ധിപ്പിച്ചിരിക്കുന്നു ഇൻഡക്ടറിലേക്ക് എമിറ്റർ ധ്രുവത്തിലേക്കുള്ള ഡയോഡ് ഇവിടേക്കുള്ള കപ്പാസിറ്റൻസ് 10 kHz ൽ നിക്ഷേപിക്കും അത് 100 മൈക്രോ സെക്കൻഡിനുള്ളിൽ Ts ലേക്ക് മാറും ഇനി നമുക്ക് ഇവിടെ ചില നോഡുകൾ ഇടാം അതിനാൽ ഇപ്പോൾ ഇത് എന്റെ Vin നോഡ് ആണ് അതിനാൽ ഞാൻ ഇതിന് a പേര് നൽകും ഇത് നമ്മുടെ പോൾ നോഡ് ആയിരിക്കും അതിനാൽ ഔട്ട്പുട്ട് നോഡിനെ ക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തതുപോലെ ഇതിനെ p എന്ന് വിളിക്കുക ഇതിനെ o എന്ന് വിളിക്കുക ഗേറ്റ് ഡ്രൈവ് എങ്ങനെയുണ്ടെന്ന് കാണാം ഗേറ്റ് ഡ്രൈവ് നോഡ് g എന്നും എല്ലാ കൺട്രോൾ വോൾട്ടേജിനെ Vc എന്നും നമുക്ക് വിളിക്കാം അതിനാൽ നമ്മൾ ഇവിടെ ഗേറ്റ് ഡ്രൈവ് നോഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് പൾസ് വിഡ്ത് മോഡുലേറ്റ് ചെയ്ത സിഗ്നലുകൾ ലഭിക്കും പൾസ് സിഗ്നലുകൾ ഓൺ ഓഫ് ചെയ്യുന്നതിനെയും ലോഡിന്റെ ഔട്ട്പുട്ട് കപ്പാസിറ്ററിലേക്കും ഇൻഡക്റ്ററിലേക്കും എങ്ങനെ പവർ പമ്പ് ചെയ്യുന്നു എന്നതിനെയും നിയന്ത്രിക്കുന്നു അടുത്തതായി നമുക്ക് ചില ശരിയായ ലേബലുകൾ ഇടാം ഇത് സ്വിച്ച് ആണെന്ന് നമ്മൾ പറയുന്നു ഒരു സ്വിച്ച് മാത്രമേ ഉള്ളൂ ഞാൻ അതിനെ Sw 1 എന്ന് നാമകരണം ചെയ്തിട്ടില്ല x അർത്ഥമാക്കുന്നത് ഇതാണ് സബ് സർക്യൂട്ട് x PWM ആണ് സബ് സർക്യൂട്ട് എന്നാണ് അതിനാൽ അതിന് പേര് നൽകി d ഒരു ഡയോഡ് മാത്രമാണ് ഉള്ളത് അതിനാൽ ഒരു നമ്പർ നൽകേണ്ടതില്ല 1 C ഇതാണ് നമ്മുടെ Ro അതിനാൽ നമുക്ക് ചില മൂല്യങ്ങൾ നൽകാം പിന്നീട് മൂല്യങ്ങൾ എങ്ങനെ കണക്കാക്കാമെന്ന് ഞാൻ കാണിച്ചുതരാം ഇപ്പോൾ ഞാൻ ഇവിടെ മൂല്യങ്ങൾ ഇടും ഔട്ട്പുട്ടിൽ 10 mH 1000 μF 100Ω 10 kHz സ്വിച്ചിംഗ് ഫ്രീക്വൻസി നിങ്ങൾക്ക് ഇവിടെ ഒരു കൺട്രോൾ വോൾട്ടേജായി 0 5 വോൾട്ട് ഉണ്ട് ഇപ്പോൾ ഇത് അതിന്റെ സ്കീമാറ്റിക് ഭാഗം പൂർത്തിയാക്കുംനമ്മൾ ഇതിനുള്ള മോഡൽ കൊടുക്കുകയും ഇതിനുള്ള മോഡൽ ഉപ സർക്യൂട്ടിലേക്ക് കൊടുക്കുകയും വേണം ഈ രണ്ട് ഘടകങ്ങളും ഒരു ഉപ സർക്യൂട്ട് ആണ് ഇതിനുള്ള ജനറിക് മോഡൽ ആണ് PWM എങ്ങനെ നിർമ്മിക്കപ്പെടുന്നു എന്നാൽ PWM എന്നത് മോഡലിന്റെ ഒരു അനലോഗ് സ്വഭാവമാണ് അതും ഇവിടെ വരും ngSpice വളരെ ശക്തമാണ് ഇത് നിങ്ങൾ നൽകുന്ന ലോജിക്കിനും അനലോഗ് സിഗ്നൽ പ്രോസസ്സിംഗിനും അനലോഗ് ബിഹേവിയറൽ മോഡൽ അനുവദിക്കുന്നു ഡിജിറ്റൽ അനലോഗ് മിക്സഡ് സിഗ്നൽ പ്രോസസ്സിംഗ് അതിനാൽ നമുക്ക് പോയി ഇവിടെ സേവ് ചെയ്യാം അതിനാൽ ഇതാണ് buck sch അതിവിടെ DC DC ഫോൾഡറിൽ ഉണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചെയ്ത റക്റ്റിഫയർ ഉദാഹരണത്തിൽ നിന്ന് ഞാൻ edt01 sub കോപ്പി ചെയ്തു ഇവിടെ പേസ്റ്റ് ചെയ്തു ഇതിൽ അതേ ഉള്ളടക്കം അടങ്ങിയിരിക്കുന്നു ഇപ്പോൾ ഇവിടെ നമ്മൾ രണ്ടെണ്ണം കൂടി ചേർക്കും ഒന്ന് സ്വിച്ചിനും മറ്റൊന്ന് PWM ത്രികോണത്തിനും ഇപ്പോൾ സ്വിച്ചിനായി ഞാൻ ഈ വരികൾ ഇടും ഇവയാണ് സബ് സർക്യൂട്ട് ഇതാണ് പവർ സ്വിച്ച് നമ്മൾ വിശദീകരിച്ച സ്കീമാറ്റിക്കിൽ ഉള്ള പവർ സ്വിച്ച് അതിനാൽ ഇതാണ് പവർ സ്വിച്ച് നിങ്ങൾ അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ വാല്യൂ ഫീൽഡ് വരുന്നത് നിങ്ങൾ കാണും ഇതിന് ഒരു പോസിറ്റീവ് നോഡും നെഗറ്റീവ് നോഡും ഉണ്ട് അതാണ് പോസിറ്റീവ് ns n എന്നത് നെഗറ്റീവ് Vcp എന്നത് കൺട്രോൾ പിൻ ആണ് ഈ പ്രത്യേക പവർ സ്വിച്ച് മാതൃകയാക്കാൻ ഇപ്പോൾ ഇത് ഒരു സ്വിച്ചും 2 ഡയോഡുകളും ഉപയോഗിക്കുന്നു അത് എങ്ങനെ കാണപ്പെടുന്നു എന്നത് ഇനിപ്പറയുന്നതാണ് ഞാൻ എന്റെ റൈറ്റിംഗ് പാഡ് തുറക്കട്ടെ അത് ഇങ്ങനെ പോകുന്നു അതിനാൽ എനിക്ക് ആ സ്വിച്ച് ഉണ്ട് ഇതാണ് സ്വിച്ച് നമുക്ക് ഇതുപോലുള്ള ഡയോഡും ഈ രീതിയിൽ ഒരു ഫ്രീ വീലിംഗ് ബോഡി ഡയോഡും ഉണ്ട് നമ്മൾ അതിനെ nsp ആയി രൂപപ്പെടുത്തുന്നു ഇതിനെ nsn എന്ന് വിളിക്കുന്നു കൂടാതെ കൺട്രോൾ പിൻ nVcp ഉണ്ട് അതിനാൽ ഇത് തടയുന്ന ഡയോഡാണ് ഇത് ഈ സ്വിച്ചിനെ സംബന്ധിച്ചിടത്തോളം ഫോർവേഡ് പാത്ത് മാത്രമേ അനുവദിക്കൂ കൂടാതെ ഏത് ഫ്രീ വീലിംഗ് പ്രവർത്തനവും Dbody യായ ബോഡി ഡയോഡിലൂടെ കടന്നുപോകുന്നു അതിനാൽ ഇത് പ്രധാനമായും ഈ സബ് സർക്യൂട്ട് ക്രമീകരിക്കുന്നു അതിനാൽ ഞാൻ ഇത് ക്ലോസ് ചെയ്തു ഇതിലേക്ക് മടങ്ങട്ടെ ഇപ്പോൾ ഇവിടെ ഒരു ഡയോഡ് മോഡൽ ഉണ്ടെന്ന് നിങ്ങൾ കാണുന്നു റക്റ്റിഫയറിനായി നമ്മൾ ഇതിനകം നിർവചിച്ച ഡയോഡ് മോഡൽ നമ്മൾ വീണ്ടും നിർവചിക്കേണ്ടതില്ല നമ്മൾ നിർവചിക്കേണ്ട ഒരു സ്വിച്ച് മോഡൽ ഉണ്ട് ഇത് ഉപയോഗിക്കുന്നത് അതിനാൽ സ്വിച്ച് സ്പൈസ് കൊണ്ട് തിരിച്ചറിയുന്നു പക്ഷേ നമുക്ക് ഇവിടെ സൂചിപ്പിക്കാം അതിനാൽ അത് ഈ പോയിന്റിൽ പ്രവേശിക്കുന്നു അതിനാൽ ഇപ്പോൾ നമുക്ക് പവറിനുള്ള സ്വിച്ച് മോഡലും സബ് സർക്യൂട്ട് മോഡലും ഉണ്ട് നമ്മൾ പവർ സ്വിച്ച് നന്നായി നിർവചിച്ചിട്ടുണ്ട് നമുക്ക് ഇത് സേവ് ചെയ്യാം അടുത്തതായി നമ്മൾ PWM നിർവചിക്കേണ്ടതുണ്ട് PWM ബ്ലോക്കിന്റെ കാര്യത്തിൽ നമ്മൾ ഇത് ഈ രീതിയിൽ ചെയ്യും മോഡലിന്റെ ടെക്സ്റ്റിൽ ഇടാം അതിനാൽ ഇത് സബ് സർക്യൂട്ട് PWM ട്രയാംഗിൾ np in ആൻഡ് np out ആണെന്ന് നിങ്ങൾ ഇവിടെ കാണുന്നു കൂടാതെ ഫ്രീക്വൻസി സ്വിച്ചിംഗ് ചെയ്യുന്ന ഒരു പരാമീറ്റർ ഉണ്ട് അത് നിങ്ങൾക്ക് മാറ്റാനും വ്യത്യസ്ത സർക്യൂട്ടുകൾക്ക് വ്യത്യാസപ്പെടാനും കഴിയും ഇതിന് ഈ ഭാഗങ്ങളുണ്ട് ഈ വരികൾ മോഡലിംഗിന്റെ അനലോഗ് സ്വഭാവമാണെന്ന് സൂചിപ്പിക്കാൻ ഞാൻ ഇവിടെ ഒരു a പ്രിഫിക്സായി ഉപയോഗിച്ചു നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് ഒരു നല്ല പരിശീലനമാണ് ഇപ്പോൾ അതിൽ മൂന്ന് പ്രധാന ഭാഗങ്ങളുണ്ട് അത് ഞാൻ നോട്ട്പാഡിൽ പോയി കാണിക്കും അതിനാൽ ഇപ്പോൾ എന്താണ് ചെയ്തത് താരതമ്യപ്പെടുത്തുന്നവ ഉണ്ടാകും താരതമ്യപ്പെടുത്തുന്നവയോട് നിങ്ങൾക്ക് പ്ലസ് മൈനസ് ഉണ്ടെന്ന് പറയാം നിങ്ങൾ ഇവിടെ ഒരു ത്രികോണ ജനറേറ്റർ നൽകും ഇവിടെയാണ് കൺട്രോൾ വോൾട്ടേജിന്റെ താരതമ്യ ഇൻപുട്ട് സമയം ഇത് ത്രികോണവുമായി താരതമ്യം ചെയ്യപ്പെടും അതിനാൽ മൈനസ് ഒന്ന് മുതൽ പ്ലസ് വൺ വരെയുള്ള ഒരു ത്രികോണമാണ് എനിക്കുള്ളതെങ്കിൽ അതിനിടയിൽ പൂജ്യമാണ് എന്റെ കൺട്രോൾ വോൾട്ടേജ് Vc ഇതുപോലെ മുറിക്കുന്നുവെന്ന് പറയാം അതിനാൽ നിങ്ങൾക്ക് ലഭിക്കും കൂടാതെ കൺട്രോൾ വോൾട്ടേജ് ത്രികോണത്തേക്കാൾ കൂടുതലാകുമ്പോഴെല്ലാം അത് ഇതുപോലെ പുറത്തുവരും അതിനാൽ ഇത് ഇതാണോ അല്ലെങ്കിൽ ഈ ഔട്ട്പുട്ട് ആണോ എന്നത് നിങ്ങൾ താരതമ്യത്തിനായി സജ്ജീകരിച്ചിരിക്കുന്ന നിങ്ങളുടെ പ്ലസ് അല്ലെങ്കിൽ മൈനസിനെ ആശ്രയിച്ചിരിക്കും എന്നാൽ ഇത്തരത്തിലുള്ള ഒരു കോൺഫിഗറേഷനായി PWM പൾസുകൾക്ക് അനുയോജ്യമായ സമയത്ത് നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിയും ഇതാണ് നമ്മൾ ഫലപ്രദമായി ഇവിടെ ചെയ്യുന്നത് അതിനാൽ നിങ്ങൾ ഇവിടെ കാണിച്ചത് പോലെ ത്രികോണ ജനറേറ്റർ നമ്മുടെ പക്കലുണ്ട് നമുക്ക് ഒരു താരതമ്യവും പിന്നെ ഒരു ലിമിറ്ററും ഉണ്ട് ഇതിന്റെ ഔട്ട്പുട്ടിൽ സംഭവിക്കുന്നത് 15 15 എന്നിവ പോസിറ്റീവ് നെഗറ്റീവ് ശ്രേണിയിലേക്ക് മാറും അതിനാൽ നിങ്ങൾക്ക് 15 മുതൽ 15 വരെ സ്വിംഗ് ലഭിക്കും അത് 0 മുതൽ 1 വരെ പോകുന്ന തരത്തിലേക്ക് പരിമിതപ്പെടുത്തേണ്ടതുണ്ട് അതിനാൽ സാധാരണയായി നമ്മൾ ഇവിടെ ഒരു ലിമിറ്റർ ഇടുന്നു ഈ ലിമിറ്റർ ഔട്ട്പുട്ട് 0 മുതൽ 1 വരെയാകുമെന്ന് കാണും അതിനാൽ നമ്മൾ ചെയ്യുന്നത് ഇതാണ് അതിനാൽ നമുക്ക് ഒരു ത്രികോണ ജനറേറ്റർ ഉണ്ട് താരതമ്യം ചെയ്യുക അത് മോഡലും ലിമിറ്ററും ആണ് അതിന്റെ ഔട്ട്പുട്ടിന്റെ താഴത്തെ പരിധി 0 ആണെന്ന് നിങ്ങൾ കാണുന്നു ഉയർന്ന പരിധി 1 ആണ് ഈ അനലോഗ് പെരുമാറ്റ മോഡലിംഗ് രസകരമാണ് നിങ്ങൾ ngSpice മാനുവലിൽ നോക്കണം ഇത് വളരെ വിശദമായി അനലോഗ് പെരുമാറ്റ മാതൃക എങ്ങനെ ചെയ്യണമെന്ന് വിശദമായി ചർച്ച ചെയ്യുന്നു

ബിഹേവിയറൽ മോഡലിംഗിലേക്കും പോയാൽ x സ്പൈസ് ng സ്പൈസുമായി സംയോജിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വിവിധ ഫംഗ്ഷൻ ബ്ലോക്കുകൾക്കായി നൽകിയിരിക്കുന്ന മോഡലുകളിൽ അനലോഗ് സ്വഭാവം നിങ്ങൾ കാണും നമ്മൾ ലിമിറ്റർ ഉപയോഗിച്ചു നമ്മൾ സമ്മർ ഉപയോഗിച്ചു ഈ രണ്ട് ബ്ലോക്കുകളും തുടർന്ന് ത്രികോണ ജനറേറ്ററും ഉപയോഗിച്ചു അതിനാൽ നിങ്ങൾ അനലോഗ് ബിഹേവിയറൽ മോഡലിലേക്ക് പോകുകയാണെങ്കിൽ നൽകിയിരിക്കുന്ന ഓരോ മോഡലിന്റെയും പൂർണ്ണമായ വിവരണവും അവ നിങ്ങളുടെ സബ് സർക്യൂട്ടിലേക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്നും വായിക്കുക ഇവിടെ ഇത് പ്രിഫിക്സ് ചെയ്യുമ്പോൾ അത് കാണുക അതിനാൽ മാനുവലിന്റെ ഈ ഭാഗത്തിലൂടെ കടന്നുപോകാൻ ശ്രമിക്കുക അനലോഗ് ബിഹേവിയറൽ മോഡലിംഗിൽ analog behavioral modelling analog behavioral modelling കൂടുതൽ മികച്ച ഉൾക്കാഴ്ച നേടാൻ ശ്രമിക്കുക ഞങ്ങളുടെ edt 01 sub ലേക്ക് തിരികെ വരുമ്പോൾ നമുക്ക് ഇത് സേവ് ചെയ്ത് ക്ലോസ് ചെയ്യാം അതിനാൽ ഇത് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ ചെയ്യേണ്ട അടുത്ത ഘട്ടം ഒരു buck cir ആണ് അത് നമുക്ക് സിമുലേറ്റ് ചെയ്യാൻ കഴിയും നമ്മൾ ഇപ്പോൾ നോട്ട് പാഡ് തുറന്ന് DC DC യിൽ buck cir ആയി സേവ് ചെയ്യും അതിനാൽ നിങ്ങൾക്ക് അത് ലഭിച്ചു cir സ്റ്റേറ്റ്മെന്റുകൾ നൽകാം അതിനാൽ നമുക്ക് ബക്ക് കൺവെർട്ടർ സർക്യൂട്ട് എഴുതാം ഒരു സ്പേസ് വിടുക ഡോട്ട് റാം 100 ms അതിനാൽ നിങ്ങൾ അങ്ങനെ ചെയ്താൽ ബക്ക് ഡോട്ട് നെറ്റ് ജനറേറ്റ് ചെയ്യപ്പെടും അത് നോക്കൂ നമ്മൾ പറഞ്ഞ ഈ മോഡലുകൾ നമുക്ക് ഉപയോഗപ്പെടുത്താം എന്ന് നിങ്ങൾ കാണുന്നു തുടർന്ന് നെറ്റ് ലിസ്റ്റ് ഇവിടെ വരുന്നു ഇതാണ് നമ്മുടെ പക്കലുള്ളത് പ്രവർത്തിക്കുന്നു എല്ലാം ലഭ്യമാണ് നിങ്ങൾക്ക് പ്ലോട്ട് ചെയ്യാംഅതിനാൽ പ്ലോട്ട് നമുക്ക് Vo എന്ന് പറയാം അതിനാൽ ഇത് ഔട്ട്പുട്ടിന്റെ പ്ലോട്ട് ആണ് അത് ഏകദേശം 8 മുതൽ 9 വോൾട്ടുകൾക്കിടയിൽ സ്ഥിരമാക്കുന്നു തുടർന്ന് നമ്മൾ പോയിന്റ് 75 ന്റെ ഡ്യൂട്ടി സൈക്കിൾ നൽകി നിങ്ങൾ എങ്ങനെയാണ് ഒരു ഡ്യൂട്ടി സൈക്കിൾ പോയിന്റ് 7 5 നൽകിയത് സ്കീമാറ്റിക്കിൽ നിങ്ങൾ ഇവിടെ പോയിന്റ് 5 വോൾട്ട് നൽകിയിട്ടുണ്ടെന്നും നമുക്കറിയാം ഞാൻ നോട്ട്പാഡിലേക്ക് പോകട്ടെ മൈനസ് 1 പോയിന്റ് 0 ൽ നിന്ന് പ്ലസ് 1 പോയിന്റ് 0 ലേക്ക് നീങ്ങുന്ന ഒരു ത്രികോണം നമ്മുടെ പക്കലുണ്ടെന്ന് നമുക്കറിയാം 5 വോൾട്ടിൽ ത്രെഷോൾഡ് കൺട്രോൾ വോൾട്ടേജ് നമുക്ക് നൽകിയിരിക്കുന്നു അതിനാൽ ഇത് സമയത്തിന്റെ 75 ശതമാനമായിരിക്കും അതിനാൽ നിങ്ങൾക്ക് ഇതുപോലൊന്ന് ഉണ്ടാകും അതിനാൽ ഇതിന് d 0 75 ഉണ്ടായിരിക്കും അതിനാൽ 75 ശതമാനം ഡ്യൂട്ടി ഇങ്ങനെയാണ് ബ്രാഞ്ച് ഉണ്ട് പ്ലോട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് ഇവിടെ കാണാനാകും ഹാഷ് ബ്രാഞ്ച് ഉള്ള നിമിഷം അർത്ഥമാക്കുന്നത് അവയുടെ നിലവിലെ സിഗ്നലുകൾ നിങ്ങൾക്ക് കാണാൻ ലഭ്യമാണെന്നാണ് ഇവയാണ് നോഡ് വോൾട്ടേജുകൾ നിലവിലെ സിഗ്നലുകൾ ഉപയോഗിച്ച് ഇവയെല്ലാം ക്ഷണികവും സ്ഥിരതയുള്ളതുമായ അവസ്ഥ ഇവിടെ എവിടെയോ സംഭവിക്കുന്നു നിങ്ങൾക്ക് രണ്ട് സൈക്കിളുകൾ എടുക്കാം അതിനാൽ ഓൺ സമയത്ത് ഇൻഡക്ടർ കറന്റ് ഉയരുന്നത് കാന്തികമായി അത് ചാർജ് ചെയ്യപ്പെടുകയും ഓഫ് സമയത്ത് ഇൻഡക്ടർ കറന്റ് കുറയുകയും ചെയ്യുന്നത് നിങ്ങൾ കാണുന്നു ക്രമീകരിക്കുന്നതിന് L മൂല്യം ഉപയോഗിക്കുകയും തുടർന്ന് അത് സേവ് ചെയ്യുകയും എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് പരീക്ഷിക്കുകയും ചെയ്യാം അതിനാൽ ഇതിലേക്ക് മടങ്ങുക ആ കമാൻഡ് ലൈനിലേക്ക് മടങ്ങാൻ നിങ്ങൾ മുകളിലെ അമ്പടയാളം ഉപയോഗിക്കുന്നു നെറ്റ് ലിസ്റ്റ് വീണ്ടും ഉണ്ടാക്കുക തുടർന്ന് ngSpice ലേക്ക് പോകുക റൺ പ്ലോട്ട് അതിനാൽ നിങ്ങൾക്ക് കറന്റ് കാണണമെന്ന് പറയാം അതിനാൽ നിലവിലെ ചലനാത്മകത മെച്ചപ്പെട്ടതായി നിങ്ങൾ കാണുന്നു നേരത്തെ കപ്പാസിറ്റൻസ് 1000μF ആയിരുന്നപ്പോൾ അത് സ്ഥിരമായ അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് അതിനാൽ ഈ രീതിയിൽ നിങ്ങൾക്ക് പരാമീറ്ററുകൾ മാറ്റിക്കൊണ്ട് സർക്യൂട്ടിനെക്കുറിച്ച് കൂടുതലറിയാൻ ശ്രമിക്കാം കൂടാതെ വിവിധ നിർണായക നോഡുകളുടെയും പൂർത്തിയാക്കുകയും ചെയ്യുന്നു ബൂസ്റ്റ് ബക്ക് ബൂസ്റ്റ് കൺവെർട്ടറിന്റെ കാര്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് സ്വിച്ച് ഡയോഡിന്റെയും ഇൻഡക്ടറിന്റെയും സ്ഥാനം മാറ്റുകയും നെറ്റ് ലിസ്റ്റ് വീണ്ടും ചെയ്യുകയും തുടർന്ന് സിമുലേഷൻ പ്രവർത്തിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ബക്ക് കൺവെർട്ടറിനായി നമ്മൾ ചെയ്ത അതേ ലൈനുകളിൽ ബക്ക് ബൂസ്റ്റ് കൺവെർട്ടറിലെ ബൂസ്റ്റ് പരീക്ഷിച്ചതിന് ഞാൻ അത് നിങ്ങൾക്ക് വിടുന്നു